ഐസോമെട്രിക് പ്രൊജക്ഷനുകൾ തുടരുന്നു എല്ലാവർക്കും സ്വാഗതം എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന നമ്മളുടെ എൻപിടിഎൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സിലേക്ക് സ്വാഗതം നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷനുകൾ പഠിക്കുകയാണ് അതിനാൽ മുമ്പത്തെ ക്ലാസുകളിൽ ഓർത്തോഗ്രാഫിക് ഒബ്ളിക് പെർസ്പെക്ടിവ് പ്രൊജക്ഷൻസ് തുടങ്ങിയ വ്യത്യസ്ത തരം പ്രൊജക്ഷനുകൾ നമ്മൾ കണ്ടു അതിൽ ഐസോമെട്രിക് പ്രൊജക്ഷനുകളാണ് നമ്മൾ പഠിക്കുന്നത് അതിനാൽ ഐസോമെട്രിക് പ്രൊജക്ഷനുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സമാന്തര ലൈനുകൾ ഉള്ള ആക്സോണോമെട്രിക് പ്രൊജക്ഷന്റെ ഭാഗമാണ് ഐസോമെട്രിക് പ്രൊജക്ഷനുകളുടെ പ്രധാന ആശയം ഈ ബേസിൻ്റെ തിരശ്ചീനമായത് ഇരുവശത്തും 30 ഡിഗ്രി ആയിരിക്കും പ്രധാന അക്ഷം പരസ്പരം 120 ഡിഗ്രി കോണാക്കുന്നു ഒരു ഉദാഹരണം ഉപയോഗിക്കുന്നതിൽ ഈ ഐസോമെട്രിക് ബോക്സ് രീതി പ്രത്യേകിച്ചും നമ്മൾ പഠിക്കും വ്യൂസ് ഒരു ബോക്സിൽ ഉൾച്ചേർക്കുകയും തിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നിടത്ത് നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷനുകൾ കാണും അതിനാൽ ഒന്നാം ആംഗിൾ രീതി ഉപയോഗിച്ച് മൂന്ന് വ്യത്യസ്ത വ്യുവിൻ്റെ ആദ്യ ഉദാഹരണം നോക്കാം നമുക്ക് ഒരു ഫ്രണ്ട് വ്യൂ പോലെയുള്ള ഒന്ന് ഉണ്ട് സ്റ്റെപ്പ്സ് ആർക്കിടെക്ചർ പോലുള്ള ചില അളവുകൾ ഉണ്ട് ഏകദേശം 30 20 യൂണിറ്റുകൾ അതിന്റെ വലതുവശത്തെ വ്യൂ മൊത്തം ഉയരം 70 യൂണിറ്റും ടോപ് വ്യൂ 50 20 20 അളവുകളും നൽകിയിരിക്കുന്നു മറ്റ് വ്യൂ വിൽ നിന്ന് നമുക്ക് ബാക്കി അളവുകൾ നേടാനാകും അതിനാൽ ഈ വ്യൂസ് നൽകിയിട്ടുണ്ടെങ്കിൽ ത്രീ ഡയമെൻഷനിൽ ഒരു വസ്തു എങ്ങനെ കാണപ്പെടുന്നുവെന്ന് നമുക്ക് ഊഹിക്കാമോ പ്രത്യേകിച്ചും ഐസോമെട്രിക് പ്രൊജക്ഷൻ രീതി ഉപയോഗിച്ച് നമുക്ക് ആ വസ്തുവിനെ വരയ്ക്കാൻ കഴിയും ഇത് ത്രീ ഡയമെൻഷനിൽ എങ്ങനെയായിരിക്കാമെന്ന് നിങ്ങൾക്ക് പരിശോധിക്കാമോ അതിനാൽ ഒബ്ജക്റ്റ് ഒരു ഗോവണിപ്പടി പോലെ തോന്നുന്നു അതിനാൽ ഈ പടികൾ നമ്മൾ നോക്കുമ്പോൾ അത് ഫ്രണ്ട് വ്യൂവിൽ കാണാൻ കഴിയും ഇതാണ് പടികൾ ബോക്സ് ഈ രീതിയിൽ പോകുന്നു അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന ഫ്രണ്ട് വ്യൂ അതുപോലെ ടോപ് വ്യൂവിൽ ഈ ബ്ലോക്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒബ്ജക്റ്റ് അതുപോലെ ഈ ബ്ലോക്ക് അതാണ് ഇത് ഇതാണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ വലതുവശത്തെ വ്യൂ വലതുവശത്തെ അളവുകളിൽ നിന്ന് നമ്മൾ നോക്കാൻ ശ്രമിക്കും അതിനാൽ ഇത് ഇതാണ് ഇത് ഇതാണ് ഈ ഭാഗം അതാണ് ഇപ്പോൾ അത്തരം ഐസോമെട്രിക് പ്രൊജക്ഷനുകൾ എങ്ങനെ വരയ്ക്കാം ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട് വ്യൂ അടക്കുക ഏതൊക്കെ അളവുകൾ ഉണ്ടെങ്കിലും ഒബ്ജക്റ്റിനെക്കുറിച്ചുള്ള പരമാവധി ആശയം നമ്മൾ എടുക്കുകയും ഈ ഐസോമെട്രിക് വ്യൂസ് നിർമ്മിക്കാൻ തുടങ്ങുകയും ചെയ്യും അതിനാൽ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് പടികൾ ഉള്ള ഒരു വസ്തു ഉണ്ട് അതിനാൽ ആദ്യം ഈ മുഴുവൻ വസ്തുവിനെയും ഒരു ചതുരത്തിൽ ഉൾപ്പെടുത്തണം ആ ചതുരം ഈ രീതിയിൽ കാണിക്കുന്നു ഐസോമെട്രിക് പ്രൊജക്ഷനുകൾക്കായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആദ്യം ഒരു തിരശ്ചീന രേഖ വരയ്ക്കുക ആ തിരശ്ചീന രേഖയുമായി ബന്ധപ്പെട്ട് ഈ നീല വരയുമായി പൊരുത്തപ്പെടുന്ന 30 ഡിഗ്രി രേഖ നിർമ്മിക്കുക അതിനാൽ ആദ്യം അത് ആ രീതിയിൽ വരയ്ക്കുക ഇപ്പോൾ ഈ പോയിന്റ് എ ബി യിലേക്ക് ബി യിലേക്ക് മാറ്റുക ഈ നീളങ്ങൾ തുല്യമാണ് കാരണം ഇവ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രിൻസിപ്പൽ ആക്സിസ് ലൈനുകൾക്ക് സമാന്തരമാണ് അതിനാൽ ഐസോമെട്രിക് വ്യൂവിൽ ഉള്ള എ ബി ഇവിടെ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് എ ബി അതേപടി തുടരുന്നു ഇപ്പോൾ ബി യിൽ നിന്ന് ഒരു ലംബ രേഖ ഇടുക ഇതിനെ ആണ് സി എന്ന് വിളിക്കുന്നത് വലത് വശത്തെ വ്യൂവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സി നീളം 70 യൂണിറ്റുകൾ നൽകിയിട്ടുണ്ട് അതിനാൽ ബി സി നീളം എന്തായാലും അതേ ബി സി നീളം നമ്മൾ വരയ്ക്കും ഇപ്പോൾ എ യിൽ നിന്ന് ബിസിക്ക് സമാന്തരമായി ഒരു ലൈൻ കൂടി വരച്ച് സി ഡി എന്നിവ ബന്ധിപ്പിക്കുക ഈ ബോക്സിൽ 30 ഡിഗ്രി ആംഗിൾ നിർമ്മിക്കുന്നതെന്തും ഈ പോയിന്റ് 1 സി മുതൽ 1 വരെ അളക്കുകയും ആ പോയിന്റ് 1 സൂചിപ്പികുകയും ചെയ്യുക ബി മുതൽ 2 വരെ ബി മുതൽ 2 പോയിന്റ് വരെ ആദ്യം ബി 2 പോയിന്റ് സൂചിപ്പിക്കുക അതുപോലെ ബി യിൽ നിന്ന് മൂന്നാമത്തെ പോയിന്റ് കണ്ടെത്തുക അതിനാൽ എവിടെയാണങ്കിലും മൂന്നാമത്തെ പോയിന്റ് കാണിക്കുക അതിനാൽ ഇവിടെ 3 നമുക്കുണ്ട് ഇവിടെ നമുക്ക് 2 ഉണ്ട് ഇപ്പോൾ ഈ 3 പോയിന്റിലൂടെ ലംബമായി കടന്നുപോകുക അതുപോലെ തന്നെ പോയിന്റ് 2 ൽ നിന്ന് എ ബിക്ക് സമാന്തരമായി ഒരു സമാന്തര രേഖ ഇടുക അതിനാൽ അത് കൂടി ചേരുന്നിടത്തെല്ലം ആ വരികളെ ബന്ധിപ്പിക്കുക അങ്ങനെ നമ്മൾക്ക് ഈ ബ്ലോക്ക് ലഭിക്കും അതിനാൽ സി യിൽ നിന്ന് 1 കിട്ടി അവിടുന്നു ലംബമായ ഒരു ലൈൻ വരക്കുക 2 ഇൽ നിന്ന് ഒരു സമാന്തര ലൈൻ എ ബി യിലേക്ക് വരക്കുക അങ്ങനെ അത് ഇവിടെ കൂടിച്ചേരുന്നു അതുപോലെ അത് അവിടെ കൂടിച്ചേരുന്നു 3 ഇല് നിന്ന് ലംബ ദിശയിൽ ഒരു ലംബ രേഖ വരക്കുക ഇത് ഇവിടെ കൂടിച്ചേരും ഇത് ബി യിൽ നിന്ന് ഈ ബിന്ദുവിൽ കൂട്ടിമുട്ടാൻ പോകുന്നു ഈ നീളം അളക്കുക ഇതിനെ നാലാമത്തെ പോയിന്റായി വിളിക്കുക അതിനാൽ ഫ്രണ്ട് വ്യൂവിൽ 3 ബിക്ക് തുല്യമാണ് ഐസോമെട്രിക്കിലെ 3 ബി അതുപോലെ ഐസോമെട്രിക് വ്യുവിലേ 4 ബി ഫ്രണ്ടൽ വ്യൂവിലെ 4 ബി അല്ലെങ്കിൽ ബി 4 ന് തുല്യമാണ് അതുപോലെ ഈ പോയിൻറുകൾ ഓരോന്നും നമ്മൾ ട്രാക്കു ചെയ്യേണ്ടതുണ്ട് അതിനാൽ അത് ഒരു ലൈൻ ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കാൻ നമ്മൾക്കാകും ഫ്രണ്ട് വ്യൂ മുഴുവനും ഐസോമെട്രിക് പ്രൊജക്ഷനുകളാക്കി മാറ്റുന്ന രീതിയാണിത് അത് ചെയ്തുകഴിഞ്ഞാൽ നമ്മൾ വലതുവശത്തെ വ്യൂ തിരഞ്ഞെടുക്കും അതിനാൽ വലതുവശത്തുള്ള ദിശയിൽ നിന്ന് ഈ രീതിയിൽ അത് കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്നു അതിനാൽ ഇതിനകം ഇത് ഒരു ചതുരമാണ് ഈ ചതുരം 30 ഡിഗ്രി ലൈനിലേക്ക് മാറ്റുക വീണ്ടും ഇത് ഒരു 30 ഡിഗ്രി രേഖയാണ് ഈ പോയിന്റിനെ നമ്മൾ എ എന്ന് വിളിച്ചു ഈ പോയിന്റിനെ നമ്മൾ എ എന്ന് വിളിക്കുന്നു ഇത് ബി ആണ് ഈ പോയിന്റും ബി പോയിന്റും യോജിക്കുമ്പോൾ നമുക്ക് ബി പ്രൈം എന്ന് വിളിക്കാം അതിനാൽ ബി പ്രൈം ഉപയോഗിച്ച് വലതുവശത്തെ വ്യൂവിലെ ദൈർഘ്യം എന്തുതന്നെയായാലും ആദ്യം നമുക്ക് അത് മാറ്റണം ഈ ചതുരം പൂർത്തിയാക്കുക ഈ ലൈനിൻ്റെ നീളം അളക്കുക അതുപോലെ ആ ലൈനിൻ്റെ ദൈർഘ്യം അളക്കുക അതിനാൽ ആ സ്ഥാനങ്ങളിൽ ഇതിന് സമാന്തരമായി രണ്ട് വരികൾ വരയ്ക്കുക നമുക്ക് ഈ പോയിന്റിനെ ഇ എന്ന് വിളിക്കാം അതിനാൽ ബി പ്രൈം ഇതാണ് ഇ പ്രൈം അതിനാൽ ബി പ്രൈമിൻറെ നീളം ഇ പ്രൈം അത് ബി ക്ക് തുല്യമാണ് ആ രീതിയിൽ ഈ ചതുരം നിർമ്മിക്കുക ഈ വരികൾക്കൊപ്പം അത് ചെയ്തുകഴിഞ്ഞാൽ ഈ ബോക്സിന്റെ മുകൾഭാഗം നിർമ്മിക്കാൻ നമുക്ക് മറ്റ് വ്യൂ ടോപ്പ് വ്യൂ ഉപയോഗിക്കാം അതിനാൽ നമുക്ക് ടോപ് വ്യൂ നോക്കാം അതിനാൽ നമ്മൾക്ക് ഇത്തരത്തിലുള്ള ബ്ലോക്കുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതുപോലെ നമ്മളുടെ ഐസോമെട്രിക് അക്ഷം ഉപയോഗിച്ച് ഇത് മുഴുവൻ കൈമാറുക ഇപ്പോൾ ഈ പോയിന്റ് മുകളിലെ ഭാഗത്ത് വരുന്നു നമ്മൾ അതിന്റെ മുകളിൽ നിന്ന് നോക്കുന്നു അതിനാൽ നമ്മൾ കാണാൻ പോകുന്നത് ഇതാണ് നമ്മുടെ മുമ്പത്തെ പി പോയിന്റുമായി പൊരുത്തപ്പെടാൻ പോകുന്ന പോയിന്റുകൾ ഇതാണ് അതിനാൽ ബി ഇവിടെ മുകളിലെ വശത്ത് ഇരട്ട പ്രൈം മുകളിലത്തെ സൈഡിൽ പൊരുത്തപ്പെടുന്നു അതിനാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചതുരം വരയ്ക്കുക ഈ ചതുരം ഈ വരികൾക്ക് സമാന്തരമായി തിരിക്കേണ്ടതാണ് അതിനാൽ എന്തായാലും ഈ പ്രാരംഭ വരിക്ക് സമാന്തരമായി നമുക്ക് അത് വരയ്ക്കണം അതുപോലെ ഈ ലൈനിന് സമാന്തരമായി നമ്മൾ ഇത് വരയ്ക്കണം മുകളിലെ വശത്ത് അടിസ്ഥാനപരമായി ഞാൻ ഒരു ചതുരം പൂർത്തിയാക്കാൻ പോകുന്നുവെങ്കിൽ ആ വരിയുടെ സമാന്തരമായി നമുക്ക് ലഭിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഈ വരിക്ക് സമാന്തരവും സമാന്തരമാണ് ഈ ചതുരങ്ങളിൽ ചേർക്കേണ്ട രീതി അതാണ് അത് ചെയ്തുകഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ബോക്സ് ചതുരാകൃതിയിലുള്ള ബോക്സ് ഉണ്ട് അവിടെ ഈ നീളങ്ങൾ കൊടുത്തു ഇപ്പോൾ ഇവ വ്യൂകളിൽ നിന്നുള്ളതിനാൽ ഈ വരി യോജിക്കുന്നു അതിനാൽ ലംബത്തിലൂടെ ഉള്ള ലൈനിന് സമാന്തരമായി നമ്മൾ ഒരു ലൈൻ നിർമ്മിക്കുന്നു അതിനാൽ നമുക്ക് ആ മാർഗം നോക്കാം അതിനാൽ നമ്മൾ മുകളിൽ കണ്ട ആ വരികൾ ഇതും ഇതും പരസ്പരം യോജിക്കുന്നു അതിനാൽ നമ്മൾ ആ മുഴുവൻ ചതുരം പൂർത്തിയാക്കുന്നു അത് ചെയ്തുകഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ലൈനുണ്ട് അത് ഈ ലൈനുമായി പൊരുത്തപ്പെടുന്നു അതുപോലെ നമ്മൾ ഇത് ബന്ധിപ്പിക്കുന്ന ഈ പ്രിൻസിപ്പൽ അക്ഷത്തിന് സമാന്തരമായി ഈ നീളമുണ്ട് ഇതും ഇതും ചെയ്തുകഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ട് വരികൾ തിരഞ്ഞെടുത്ത് ഈ രീതിയിൽ വരയ്ക്കുക ഈ വരി ഈ വരിയുമായി യോജിക്കുന്നു അത് ചെയ്തുകഴിഞ്ഞാൽ ഈ വരികൾ പൂർത്തി ആയിക്കഴിഞ്ഞാൽ ആ ചതുരം നമ്മൾ നീക്കം ചെയും അതിനാൽ ഈ മാർഗം ഉപയോഗിച്ച് തന്നിരിക്കുന്ന പ്രൊജക്ഷനുകളുടെ ഐസോമെട്രിക് വ്യൂസ് നിർമ്മിക്കാൻ നമ്മൾക്കാകും അതിനാൽ ഈ ഐസോമെട്രിക് വ്യൂസ് മനസിലാക്കാൻ നമുക്ക് ഒരു ഉദാഹരണം കൂടി നോക്കാം നമ്മൾ മൂന്ന് വ്യൂസ് നൽകി ഫ്രണ്ട് വ്യൂ വലതുവശത്തെ വ്യൂ ചില അളവുകളുള്ള ടോപ് വ്യൂ എന്നിവ ഈ അളവുകൾ 1 2 10 എന്നിങ്ങനെയാകാം അതിനാൽ ഇവിടെ അതിനുപകരം നമ്മൾ അതിനെ അക്ഷരങ്ങളാൽ സൂചിപ്പിക്കുന്നു ഈ നീളത്തിൽ നമ്മൾ ഒരു ബോക്സ് നിർമ്മിക്കേണ്ടതുണ്ട് അതിനാൽ നമുക്ക് നോക്കാം ഒന്നാമതായി ചതുരങ്ങൾ പ്രബലമായ സവിശേഷതകളുള്ള അത്തരം വസ്തുക്കൾ ഉള്ളപ്പോഴെല്ലാം നമ്മൾ പ്രധാന അക്ഷം ഉപയോഗിച്ച് ഒരു ബോക്സ് നിർമ്മിക്കുന്നു ഇപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് ഈ നീളം എ ഡബ്ലു അതിനാൽ ഈ ഘട്ടത്തിൽ നിന്ന് നമുക്ക് ബി എന്ന് വിളിക്കാം എ ബി യുടെ നീളം ഡബ്ലു അതിനാൽആദ്യം എ ബി യിൽ നിന്ന് നമ്മൾ തിരശ്ചീനമായി വരയ്ക്കുന്നു ഒന്നാമതായി നമ്മൾ ഒരു തിരശ്ചീന രേഖ വരയ്ക്കുന്നു ഇവിടെ 30 ഡിഗ്രിയുമായി ബന്ധപ്പെട്ട് ആ 30 ഡിഗ്രിയുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് വരികൾ വരയ്ക്കുന്നു ഈ രണ്ട് വരികൾ വരച്ചുകഴിഞ്ഞാൽ ഒന്ന് ഡബ്ലു നീളവുമായി പൊരുത്തപ്പെടുന്നു കൂടാതെ ബി 3 നീളവുമുണ്ട് അത് നമുക്ക് വലതുവശത്തെ വ്യൂവിൽ നിന്ന് മാത്രമേ കാണാൻ കഴിയൂ അതിനർത്ഥം ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് ദൈർഘ്യം ഉള്ളിടത്തെല്ലാം നമ്മൾ അത് വരയ്ക്കേണ്ടതുണ്ട് അതിനാൽ ബി മുതൽ 3 വരെ ടോപ് വ്യൂവിൽ നിന്ന് നമ്മൾ കാണും ബി 3 നീളം 2 മുതൽ 3 വരെ പോയിന്റ് അനുസരിച്ച് ദൃശ്യമാണ് അതിനാൽ ആ നീളം ഡി ആണ് അതിനാൽ ഡി നീളത്തിൽ നമ്മൾ ആദ്യം പോയിന്റ് 3 കണ്ടെത്തും ബി യിൽ നിന്ന് ചെയ്തുകഴിഞ്ഞാൽ 3 അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈൻ ലംബമായി വരക്കുക എ യിൽ നിന്നും ഒരു ലൈൻ ലംബമായി ഇപ്പോൾ വലതുവശത്തെ വ്യൂവിൽ നിന്ന് നമുക്ക് അതിന്റെ ലംബ ഉയരം കാണാൻ കഴിയും അതിനാൽ ഈ വസ്തുവിന്റെ ലംബ ഉയരം എച്ച് ആണ് അതിനാൽ എല്ലായ്പ്പോഴും നമ്മുടെ പ്രധാന അക്ഷത്തിന് സമാന്തരമായി എച്ച് നീളത്തിൽ നമ്മൾ ഈ പോയിന്റുകളെ ബന്ധിപ്പിച്ച് ഒരു ബോക്സ് പോലെ ആക്കും ഈ അരികുകൾ പ്രിൻസിപ്പൽ അക്ഷമായതിനാൽ ഇവിടെ പ്രിൻസിപ്പൽ അക്ഷം എടുക്കാം രണ്ട് അളവുകളിൽ നമ്മൾ അത് കാണുന്നുവെങ്കിൽ ഈ വശങ്ങൾക്കിടയിൽ ഇത് 120 ഡിഗ്രി കോണാക്കുന്നു ബോക്സ് നിർമ്മിച്ചുകഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂവിൽ നിന്നും വലതുവശത്തെ വ്യൂവിൽ നിന്നും ഈ നീളങ്ങൾ മാറ്റാൻ നമ്മൾക്ക് കഴിയും അതിനാൽ നമ്മൾക്ക് ആദ്യം തന്നെ ചെയ്യാൻ കഴിയുന്നത് ഈ വലതുവശത്തെ വ്യൂ പടികൾ ദൃശ്യമാകുന്നത് തിരഞ്ഞെടുക്കുക അതിനാൽ ഈ പ്രിൻസിപ്പൽ ആക്സിസ് പ്ലെയിനിന് സമാന്തരമായി കരുതപ്പെടുന്ന ഏതൊരു വരിയുടെയും നിർമ്മാണം നമ്മൾ ചെയ്യണം അതിനാൽ ഈ വരി സമാന്തരമായി ഇപ്പോൾ ഈ വരി മറ്റൊരു പ്രിൻസിപ്പൽ അക്ഷവുമായി സമാന്തരമായി മുന്നോട്ട് വരയ്ക്കുക ഈ പോയിന്റിൽ നിന്ന് അനുയോജ്യമായ നീളങ്ങൾ 3 മുതൽ ഈ പോയിന്റിലേക്ക് മാറ്റുക അതുപോലെ ഇവിടെ നിന്ന് ഇവിടെ വരെ ആ നീളം എന്തായാലും ആ നീളം ഇവിടെയും ഈ പ്രൊജക്ഷനിൽ നിന്നും നമ്മൾ കൈമാറണം ഈ ദൈർഘ്യം നമുക്കറിയാം അതിനാൽ ഇവിടെ നിന്ന് യോജിപ്പിക്കുന്നതിന് ഒരു ലംബ രേഖ ഇടുക അങ്ങനെ വരികളിലൂടെ ഇവയിൽ ചേർക്കാനുള്ള ഒരു സ്ഥാനത്ത് നമ്മൾ ഉണ്ടാകും അതുപോലെ മറ്റ് പ്ലെയിനുകളിലും ഈ ദൈർഘ്യം നമ്മൾ കൈമാറും സാധ്യതകളിലൊന്ന് ഫ്രണ്ടൽ വ്യൂ മുതൽ ഇത്തരത്തിലുള്ള ബ്ലോക്ക് പോലെയുള്ള എന്തെങ്കിലും ഉണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും അത് സാങ്കൽപ്പികമാണ് അതിനാൽ നമുക്ക് ഇതിനൊപ്പം ചേരാം ടോപ് വ്യൂവിൽ നിന്ന് ഈ ഭാഗം നിലവിലുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും പടികളുടെ ഈ ഭാഗങ്ങൾ നമ്മൾക്കു കാണാൻ കഴിയും അതുപോലെ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നമ്മൾക്ക് ആ ഭാഗങ്ങളുണ്ട് സമാനമായ ഫ്രണ്ട് വ്യൂ നിന്ന് ഈ ഭാഗങ്ങളുണ്ട് ഈ വിധത്തിൽ നമ്മുടെ ഐസോമെട്രിക് ഡ്രോയിംഗ് നിർമ്മിക്കാൻ കഴിയും അതിനാൽ ഒന്നാമതായി വ്യൂകൾ ശ്രദ്ധാപൂർവ്വം ദൃശ്യവൽക്കരിക്കണം പ്രിൻസിപ്പൽ പ്ലെയിനുകളിൽ വ്യൂകൾ ഉള്ള രീതി ഇവയാണ് പ്രിൻസിപ്പൽ പ്ലെയിനുകൾ ഉദാഹരണത്തിന് നമ്മൾക്ക് ആ പ്രൊജക്ഷനുകൾ വരയ്ക്കാം ഈ പ്ലെയിനുകൾ ലഭ്യമായിക്കഴിഞ്ഞാൽ ഈ ദൈർഘ്യങ്ങൾ ഈ ജ്യാമിതിയിലേക്ക് മാറ്റുക സമാനമായി നിങ്ങൾ കാണുമ്പോൾ മുകളിലെ വ്യൂവിൽ നിന്നും ഈ ലൈനുകൾ താഴേക്ക് ഇടുക അതിനാൽ ഒരു സമ്പൂർണ്ണ ഐസോമെട്രിക് പ്രൊജക്ഷൻ ലഭിക്കുന്ന ഒരു രീതിയിൽ ആയിരിക്കും കമ്പ്യൂട്ടർ ഗ്രാഫിക്സിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അത്തരം ഐസോമെട്രിക് പ്രൊജക്ഷനുകളും വ്യുകളും നിർമ്മിക്കുന്നത് എത്ര എളുപ്പമാണെന്ന് നമ്മൾ കാണും എന്നാൽ ഈ ഐസോമെട്രിക് ഡ്രോയിംഗുകൾക്ക് പിന്നിലെ അടിസ്ഥാന ആശയങ്ങൾ ആദ്യം ഈ പ്രിൻസിപ്പൽ അക്ഷങ്ങൾ പ്രിൻസിപ്പൽ പ്ലെയിനുകൾ എന്നിവ തിരിച്ചറിയുന്നു ഈ വ്യൂകളിൽ നിന്ന് ഈ ദൈർഘ്യങ്ങളെ ഈ പ്രധാന പ്ലെ യിനുകളിലേക്ക് മാറ്റുന്നു ഒരു അവബോധജന്യമായ സമീപനത്തിലൂടെ നമ്മൾ വരികൾ നീക്കംചെയ്ത് വസ്തു നേടുന്നു നമ്മൾ അത് നിർമ്മിച്ചുകഴിഞ്ഞാൽ അത് വ്യൂകളുമായി പൊരുത്തപ്പെടുന്നുണ്ടോയെന്ന് നമ്മൾ വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട് ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം ഇവിടെ നമുക്ക് ഒരു ബ്ലോക്കും സിലിണ്ടറുകളും ഉണ്ട് ഒരു സിലിണ്ടർ പോലെയുള്ള ഒന്ന് ഉണ്ട് ഒരു ബ്ലോക്ക് ഉണ്ട് ആ ബ്ലോക്ക് നമുക്ക് ടോപ് വ്യൂവിൽ കാണാൻ കഴിയും ഇത് ഒരു ചതുരാകൃതിയിലുള്ള ബ്ലോക്ക് പോലെയാണ് ഒരു സർക്കിൾ ഉണ്ട് ഒന്നാമതായി അവബോധജന്യമായ ആശയം ഏറെക്കുറെ നേടുക കട്ടിയുള്ള ഒരു ബ്ലോക്ക് പോലെ കാണപ്പെടുന്നു എന്നിരുന്നാലും നമ്മൾ വരയ്ക്കുന്നത് ഐസോമെട്രിക് വ്യൂവല്ല ഭാവനാപരമായ ഉദ്ദേശ്യത്തിനായി ഒരു ബോക്സ് അവിടെയുണ്ട് കാരണം ഷാഫ്റ്റിൻ്റെ മുഴുവൻ നീളത്തിലും വൃത്താകൃതിയിലുള്ള ഒരു കാര്യം ഉണ്ട് അതിനാൽ ആ രീതിയിൽ പുറത്തുവരേണ്ട ഒരു വൃത്താകൃതി പോലെ എന്തെങ്കിലും ഉണ്ടായിരിക്കണം ഇപ്പോൾ ഇത്തരത്തിലുള്ള അവബോധജന്യമായ ഡ്രോയിംഗ് രീതി വളരെ സഹായകരമാണ് അത് ചെയ്തുകഴിഞ്ഞാൽ നമ്മൾ 30 ഡിഗ്രി ലൈനുകൾ നിർമ്മിച്ച് മുന്നോട്ട് പോകും വളരെ ചിട്ടയായ രീതിയിൽ നമ്മൾ ഈ ഐസോമെട്രിക് വ്യൂസ് നിർമ്മിക്കും അതിനാൽ ഇത് ആരംഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഫ്രണ്ട് വ്യൂവിൽ നിന്ന് ഞാൻ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എ ബി യുടെ നീളം ഉണ്ട് അതിനാൽ ഒരു തിരശ്ചീന രേഖ ഉപയോഗിച്ച് ആരംഭിക്കുക എവിടെയെങ്കിലും 30 ഡിഗ്രി വര വരയ്ക്കുക മറ്റൊരു 30 ഡിഗ്രി രേഖ വരയ്ക്കുക ഇപ്പോൾ എ ബി നീളം അത് കാണിക്കുന്നു ഇപ്പോൾ ബി യിൽ നിന്ന് ലംബമായി 10 യൂണിറ്റ് വരെ കാണിക്കുക അതിനാൽ സി യിൽ നിന്ന് എന്നതിന് പകരം സി എന്ന് വിളിക്കുക ഡി നമ്മുടെ എ ബി ലൈനിന് സമാന്തരമായി പോകുന്നു സി നീളം ഡി നീളത്തിലേക്ക് മാറ്റുക ഇവിടെ 50 യൂണിറ്റ് അത് ചെയ്തുകഴിഞ്ഞാൽ വീണ്ടും നമുക്ക് 50 അളവ് ഉള്ള ഈ ചതുരം പരിവർത്തനം ചെയ്യാൻ കഴിയും അതിനാൽ ഇവിടെ ഒരു ലമ്പം കൂടി ഇടുക കാരണം ഇത് നമ്മൾ ശ്രമിക്കുന്നതിന്റെ ഒരു രേഖാചിത്രമാണ് ഒന്നാമതായി ആ റോംബസ് നിർമ്മിക്കുക അത് ചെയ്തുകഴിഞ്ഞാൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഈ സർക്കിൾ ഉണ്ട് അവസാന ക്ലാസ്സിൽ ഈ സർക്കിളിനെ ഒരു വ്യൂവിൽ ഒരു ദീർഘവൃത്തമാക്കി ഐസോമെട്രിക് രീതിയിൽ എങ്ങനെ പരിവർത്തനം ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു അതിനാൽ സമാനമായി ഒന്നാമതായി ആ വൃത്തത്തെ ദീർഘവൃത്തമാക്കി നിർമ്മിക്കേണ്ടതുണ്ട് അങ്ങനെ ആ ദീർഘചതുരാകൃതിയിലുള്ള ബ്ലോക്കിൽ നമുക്ക് ഈ അർദ്ധവൃത്തം ഉണ്ടാകും അത് ചെയ്തുകഴിഞ്ഞാൽ അതിന് ടാഞ്ജൻറ് ആയി ഈ ലംബ സിലിണ്ടർ ലൈനുകൾ നിർമ്മിക്കേണ്ടതുണ്ട് ടോപ് വ്യൂവിൽ നിന്ന് നമ്മൾ 30 ഡിഗ്രി യിൽ നോക്കുമ്പോൾ ഐസോമെട്രിക് വ്യൂവിലെ ഈ സർക്കിൾ വീണ്ടും ഒരു സമാന്തര ദീർഘവൃത്തം ആയിരിക്കുംഅത് നിർമ്മിക്കേണ്ടത് 30 ഉയരത്തിൽ ആണ് അതിനാൽ നമ്മൾ ഈ ദീർഘവൃത്തം നിർമ്മിച്ചുകഴിഞ്ഞാൽ ആ പ്രാരംഭ സർക്കിളിന്റെ കേന്ദ്രം അവിടെ നിന്ന് 30 യൂണിറ്റുകൾ മുന്നോട്ട് പോകുമെന്ന് നമുക്കറിയാം വീണ്ടും ഈ ദീർഘവൃത്തത്തിലേക്ക് ഒരു പരിവർത്തന സർക്കിൾ കൂടി നിർമ്മിക്കുക അത് ചെയ്തു കഴിഞ്ഞാൽ ഐസോമെട്രിക് കാര്യങ്ങളുടെ കാര്യത്തിൽ മറഞ്ഞിരിക്കുന്ന വരി ദൃശ്യമാകാൻ പാടില്ലാത്തതിനാൽ ഈ വരികൾ ചേർക്കുകമറഞ്ഞിരിക്കുന്ന ലൈനുകൾ നീക്കം ചെയ്യുക ഈ ഐസോമെട്രിക് വ്യൂവിനെ പറ്റി ഒരു കാര്യം കൂടി അത് സർക്കിളിൽ നിന്ന് വരുന്നതും ദീർഘവൃത്താകൃതിയിലുള്ളതുമായ കാര്യമാണെങ്കിൽ നമ്മൾ ആ അക്ഷം കാണിക്കുന്നു അല്ലെങ്കിൽ പുറകുവശത്തുള്ള ഒന്നും മറഞ്ഞിരിക്കുന്ന വരികളാൽ നമ്മൾ കാണിക്കില്ല ഇപ്പോൾ പിരമിഡിന്റെ അവസാന ഉദാഹരണം നോക്കാം അതിനാൽ ആദ്യം ഈ വ്യൂകൾ ഫ്രണ്ട് വ്യൂ ടോപ് വ്യൂ എന്നിവ ശ്രദ്ധാപൂർവ്വം ദൃശ്യവൽക്കരിക്കുക ടോപ് വ്യൂവിൽ വസ്തുവിന് അത്തരം ആകൃതി ഉണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് അത്തരം ത്രികോണാകൃതി ഉണ്ട് അതിനാൽ ഈ വ്യൂ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുന്നതിലൂടെ ബേസ്മെൻറ് ബ്ലോക്ക് പോലെ ആയിരിക്കാമെന്ന് നമ്മൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ കാരണം ഈ ചായ്വുള്ള കാര്യം ഇതുമൂലം വ്യൂകൾ പറയുന്നത് ഒരു പരന്ന തറ അവിടെ ഉള്ള പോലെ ആണ് അതിനാൽ ഒരുപക്ഷേ അത് അങ്ങനെയാണെന്ന് തോന്നുന്നു കാരണം ഈ കാര്യങ്ങളെല്ലാം ഈ പോയിൻ്റിൽ യോജിക്കുന്നു അതുപോലെ ഇവിടെ ഒബ്ജക്റ്റ് ഇങ്ങനെ ആയിരിക്കാമെന്ന് തോന്നുന്നു അതിനാൽ ഞാൻ അത് നീക്കംചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷേ വസ്തു ഇതുപോലെയാണ് ഒരു ത്രിമാന കാര്യമായി അത്തരത്തിലുള്ള വ്യൂ ദൃശ്യവൽക്കരണം ലഭിച്ചുകഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാനും അത്തരം പിരമിഡ് ആസൂത്രിതമായി നിർമ്മിക്കാനും കഴിയും അതിനാൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യപടി പതിവുപോലെ 30 ഡിഗ്രി വരകൾ വരച്ച ഒരു തിരശ്ചീന രേഖയാണ് ഇത് ഈ ബോക്സ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ യോജിക്കുന്നു ഇതാണ് ചതുരാകൃതിയിലുള്ള ബോക്സ് ഇത് ഐസോമെട്രിക് കാഴ്ചകളായി മാറ്റാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഇവിടെ 45 യൂണിറ്റുകൾ ഉണ്ട് 45 യൂണിറ്റുകൾ അവിടെയും അതിനാൽ ബേസ്മെന്റ് ചതുരം നിർമ്മിക്കുക അത് ചെയ്തുകഴിഞ്ഞാൽ ഈ ചെറിയ ചതുരവും കൈമാറുക അത് അവിടെ ഇല്ല അതിനാൽ ആ ചതുരം കൈമാറുക അതുവഴി ഈ പോയിന്റുകൾ തിരിച്ചറിയാൻ നമ്മൾക്കാകും നമ്മൾക്ക് ഇത് ലഭിച്ചുകഴിഞ്ഞാൽ ചതുരാകൃതിയിലുള്ള ഒരു റോംബസ് ആകൃതിയിലേക്ക് നമുക്ക് എച്ച് മുതൽ ഈ അഗ്രം വരെ ഒരു ലംബ രേഖ രേഖപ്പെടുത്തുന്നു അതിനാൽ സിസ്റ്റത്തിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് ആയി പ്രവർത്തിക്കുന്ന 120 ഡിഗ്രി 120 ഡിഗ്രി 120 ഡിഗ്രി എന്നിവ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അതിനാൽ 50 യൂണിറ്റുകളുടെ നീളം നമ്മൾ മാറ്റി കഴിഞ്ഞാൽ അത് അടിത്തറയിൽ നിന്നാണ് അതിനാൽ അടിസ്ഥാനം നമ്മൾ നിർവ്വചിച്ചുകഴിഞ്ഞാൽ ആ വരിയിൽ 50 മാർക്ക് വരെ പീക്ക് അടയാള പെടുത്തുക അതുപോലെ നമ്മൾ ഈ 20 യൂണിറ്റുകൾ ചതുരത്തിലേക്ക് മാറ്റണം ഈ പോയിന്റുമായി ബന്ധപ്പെട്ട് 20 യൂണിറ്റുകൾ അതായത് 20 യൂണിറ്റുകൾ ആദ്യം കാണിക്കേണ്ട പോയിന്റാണിത് അതുപോലെ ആ പോയിന്റുമായി ബന്ധപ്പെട്ട് ഈ പോയിന്റ് 20 യൂണിറ്റ് സ്ഥാനത്താണ് അതിനാൽ ആ പോയിന്റുമായി ബന്ധപ്പെട്ട് ഇരുപത് യൂണിറ്റുകൾ അത് കാണിക്കുക പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ ഇവ ലൈനുകൾ വെച്ച് ചേർക്കുക ഇങ്ങനെ ആണ് നമ്മൾ ചെയ്യുന്നതും സാധാരണ ഈ ആക്സിസ് അടയാളപ്പെടുത്തുന്നതും നമ്മൾ ഈ 30 ഡിഗ്രി ലൈനുകൾ അതേപടി വിടുകയാണ് അതിനാൽ ഇതോടെ നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷനുകൾ അവസാനിപ്പിക്കുകയും അടുത്ത ക്ലാസ് മുതൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യും ഈ ഐസോമെട്രിക് പ്രൊജക്ഷനുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പ്രൊഫസർ ധനഞ്ജയ് ജോൽഹെ എഴുതിയ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് എന്ന പുസ്തകത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം